ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇന്ന് ഞാൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മികച്ച രീതിയിൽ വീണ്ടെടുക്കൽ എന്നതിനെയും കുറിച്ച അസ്സെസ്സ്മെന്റ്സ് നടത്താൻ പോകുന്നു എങ്ങനെ വ്യത്യസ്തമായ വിലയിരുത്തലുകൾ നടത്തി അതിനാൽ പിന്തുടരുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ത് തരത്തിലുള്ള ശ്രദ്ധയാണ് അവർ നൽകിയത് വിലയിരുത്തലുകളെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂല്യനിർണ്ണയ പ്രക്രിയയിലെ അപാകതകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചു ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിനാൽ 2 മുതൽ 3 വരെ വ്യത്യസ്ത മൂല്യനിർണ്ണയങ്ങളുടെ നിർണായക അവലോകനം ഞാൻ നിങ്ങൾക്ക് നൽകും പ്രത്യേകിച്ച് ഒന്ന് ആഗോള തലവും രണ്ട് ഒരു പ്രത്യേക തലത്തിലുള്ള വശവുമാണ് ആഗോള വീക്ഷണകോണിൽ നിന്ന് ഞാൻ ചർച്ച ആരംഭിക്കും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഗ്ലോബൽ അസസ്മെന്റ് റിപ്പോർട്ട് ഞാൻ നിങ്ങളെ ഹ്രസ്വമായി പരിചയപ്പെടുത്തും കാസിഡി ജോൺസണും സംഘവുമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് 2011 ൽ ഇത് ISDR വികസിപ്പിച്ചെടുത്തു അത് ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നു താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലെ ഭൂമി ആസൂത്രണം നിർമ്മാണം എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളുടെ സമീപകാല അനുഭവം ആണിത് അതിനാൽ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു കാരണം DRR വശം DRR ലെ വെല്ലുവിളികൾ ഈ താഴ്ന്ന ഇടത്തരം വരുമാന വിഭാഗങ്ങൾക്ക് വളരെ പ്രസക്തമാണ് കൂടാതെ വിവിധ കാരണങ്ങളുള്ളതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത് ചില സാങ്കേതിക ഇടപെടലുകൾ ഉചിതമായി അവതരിപ്പിക്കുക അതുപോലെ തന്നെ സംസ്കാരങ്ങളുടെ അടിത്തട്ടും താഴത്തെ തലത്തിലുള്ള യാഥാർത്ഥ്യങ്ങളും ആ കെട്ടിട കോഡുകളും ഘടനാപരമായ നടപടികളും അതുപോലെ തന്നെ ലാൻഡ് പ്ലാനിംഗ് പ്രശ്നങ്ങൾ ലാൻഡ് മാനേജ്മെന്റ് പ്രശ്നങ്ങൾ പ്ലാനിംഗ് ലാൻഡ് മാനേജ്മെന്റ് എന്നിവയും പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനാൽ അതെല്ലാം ഈ പ്രത്യേക വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് ഞാൻ ഹ്രസ്വമായി വിശദീകരിക്കും നിർമ്മിത പരിസ്ഥിതിയിൽ ദുരന്തസാധ്യതകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് 2 സമീപനങ്ങളുണ്ട് ഒന്ന് ലൊക്കേഷൻ സമീപനമാണ് രണ്ടാമത്തേത് ഡിസൈൻ സമീപനമാണ് ആദ്യത്തേതിൽ ലൊക്കേഷൻ സമീപനം ഭൂവിനിയോഗ ആസൂത്രണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂവിനിയോഗ ആസൂത്രണം എന്ന് നമ്മൾ പറയുമ്പോൾ വ്യത്യസ്തമായ പ്രക്രിയകൾ ഉണ്ട് അത് പരസ്പരം കൈകോർത്ത് പോകുകയും അത് ഒരു പ്രത്യേക ക്രമത്തിൽ പോകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് അപകടസാധ്യതയുള്ള മേഖലകളോരോന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ഇവയാണ് അപകട സാധ്യതയുള്ള മേഖലകൾ എന്ന് തിരിച്ചറിയുമ്പോൾ ഇത് ഒരു പ്രാദേശിക തലത്തിലുള്ള ധാരണയാണോ ഇത് ഒരു പ്രത്യേക ഏരിയ വികസന ധാരണയാണോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ഏതൊക്കെയാണ് പല തരത്തിലുള്ള അപകടസാധ്യതയ്ക്ക് വിധേയമാകാൻ സാധ്യതയുള്ള മേഖലകൾ ഏത് തരത്തിലുള്ള അപകടങ്ങളാണ് എന്നും തിരിച്ചറിയുന്നു അത് ഉരുൾപൊട്ടലായാലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമായാലും ഒന്നിലധികം അപകടസാധ്യതയുള്ള പ്രദേശമായാലും അതാണ് ആദ്യ ദൌത്യം രണ്ടാമത്തേത് ഞങ്ങൾ സോണിംഗ് വശം ഉപയോഗിച്ച് ചെയ്യുന്നു സോണിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സ്പേഷ്യൽ പ്ലാനിംഗ് വഴി ഞങ്ങൾ ഈ പ്രദേശങ്ങൾ നിയുക്തമാക്കിയിട്ടുണ്ട് ഉയർന്ന അപകടസാധ്യതയുള്ളത് കുറഞ്ഞ അപകടസാധ്യതയുള്ളത് മിതമായ അപകടസാധ്യതയുള്ളത് ഇതിന് സാധ്യതയുള്ളത് എന്താണ് സാധ്യതകൾ എന്താണ് അവസരങ്ങൾ അതിനുള്ളിലെ ഭീഷണികൾ എന്നിവ ആ നിമിഷം സോൺ ചെയ്യുന്നു അതിനാൽ ഇവിടെയാണ് ഞങ്ങൾ തന്ത്രപരമായ ഒരു സ്പേഷ്യൽ ആസൂത്രണ പ്രക്രിയയും വികസിപ്പിക്കുന്നത് ഇവിടെ ദുരന്തമുണ്ടായാൽ ഒഴിപ്പിക്കലിനോ അടിയന്തര വാസസ്ഥലത്തിനോ ഉപയോഗിക്കാവുന്ന ചില തുറന്ന പ്രദേശങ്ങൾ സജ്ജീകരിക്കാനും നഗരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലൈഫ്ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ആസൂത്രണം ചെയ്യാനും ഉള്ള നിർദേശങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഇതാണ് ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഒരു യഥാർത്ഥ സമ്മർദ്ദകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പ്രധാന സേവന പദ്ധതികളിൽ നിന്ന് അടിസ്ഥാന സൌകര്യങ്ങളുടെ ഭൂരിഭാഗവും വെട്ടിക്കുറച്ചു അതിനാൽ റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല വെള്ളപ്പൊക്കം പ്രധാന റോഡിലേക്ക് വന്നു അതിനാൽ റെയിൽപാതകൾ തകർന്നു അതിനാൽ ആ രീതിയിൽ പല മേഖലകളിലും പ്രവേശനം വെട്ടിക്കുറച്ചിരിക്കുന്നു ഇവിടെയാണ് ഇവ ഇവിടെ വെള്ളപ്പൊക്ക നിലയാണെന്ന് അറിഞ്ഞാൽ ഇത് ഈ നിലയിലേക്ക് ഉയർന്നേക്കാം അതിനാൽ ഏത് തരത്തിലുള്ളതാണെന്ന് പോലും പ്ലാൻ ചെയ്യാം ദുരന്തത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഇതര ഇൻഫ്രാസ്ട്രക്ചർ കണക്റ്റിവിറ്റി നിങ്ങൾക്കറിയാവുന്ന ഒരു ബദൽ സമീപനത്തിലൂടെ ഈ ആളുകളെ എങ്ങനെ ഒഴിപ്പിക്കാം അവരെ എവിടെ പാർപ്പിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടിയിയ്ക്കുന്നു ഉടനടിയുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രക്രിയയിൽ ഈ ആളുകളെ യഥാർത്ഥത്തിൽ എവിടെ കിടത്താനാകും ഇത് ഒരുതരം തുറസ്സായ സ്ഥലമാണ് കാരണം നിങ്ങൾ വീടിനായി വീട് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ വീടിന് വീട് പിന്നെ തിരക്കേറിയ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ ദുരന്തസമയത്ത് എന്ത് സംഭവിക്കും അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം ആവശ്യമാണ് അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയും ഒരുമിച്ച് ഒരു തന്ത്രപരമായ സ്ഥല ആസൂത്രണമായി മാറുന്നു അതാണ് ഡിആർആറിനെ ആ തലത്തിൽ അഭിസംബോധന ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് അത് ആ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ അതോ നിങ്ങൾക്കറിയാവുന്ന ഒരു ചെറിയ സമീപനം മാത്രമാണോ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ് ചോദ്യം ഈ ഭൂമിയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് അങ്ങനെയാണ് പക്ഷേ ഒരു കൂട്ടത്തിൽ എങ്ങനെ ഒരു നഗരം എങ്ങനെ പ്രവർത്തിക്കുന്നു ഞങ്ങൾ അത് എങ്ങനെ ആസൂത്രണം ചെയ്യണം അതിനാൽ ഇവ ചില പ്രധാന വെല്ലുവിളികളാണ് ഡിസൈൻ സമീപിക്കുമ്പോൾ കെട്ടിടങ്ങൾ എങ്ങനെ രൂപകൽപന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നതിനെ നിയന്ത്രിക്കുന്ന മെക്കാനിസങ്ങളുമായി ഇത് ചെയ്യണം അതിനാൽ അത് ചില കോഡുകൾ ചില നിയന്ത്രണ ചട്ടക്കൂടുകൾ ഈ ദേശീയ തലത്തിലുള്ള നിയന്ത്രണ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ പ്രാദേശിക തല ചട്ടക്കൂടുകളുടെ ബൈലോകൾ എന്നിവ പാലിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ അതിന്റെ ഡിസൈൻ വശം രണ്ട് സമീപനങ്ങളിലെയും പ്രധാന വെല്ലുവിളി ഒന്നാമതായി നമുക്ക് നിയന്ത്രണ ചട്ടക്കൂടുകൾ ഉണ്ട് എന്നാൽ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്ക് കീഴിലുള്ള വികസ്വര രാജ്യങ്ങളിൽ അവ എത്രത്തോളം പൂർണ്ണമായി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കർശനമായി അവ സ്വീകരിച്ചു എന്നതാണ് ഇവിടെ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ദാരിദ്ര്യം ഒരു വെല്ലുവിളിയാണ് വിദ്യാഭ്യാസം മറ്റൊരു വെല്ലുവിളിയാണ് അതുപോലെ ഈ ആധികാരിക ചട്ടക്കൂടുകൾ പാലിക്കാൻ പ്രാദേശിക സംസ്കാരങ്ങൾക്ക് കഴിയുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സാംസ്കാരിക അനുരഞ്ജനത്തിന്റെ നിരവധി വശങ്ങളുണ്ട് അതിനാൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകും ചില പ്രധാന പോയിന്റുകൾ ഉള്ളതിനാൽ ഈ വിലയിരുത്തൽ അങ്ങനെ നടത്തി മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് രൂപപ്പെടുത്തിയ രീതിശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത് ഈ പഠനം 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് സാഹിത്യ അവലോകനം അതിനാൽ നഗര പ്രാദേശിക ആസൂത്രണത്തിലൂടെയും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനും ദുരന്ത ലഘൂകരണത്തിനും യോജിച്ച നിരവധി സാഹിത്യങ്ങൾ വിദഗ്ധർ ശേഖരിച്ചു ദുരന്തം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന കെട്ടിട നിലവാരം മാനദണ്ഡങ്ങളുടെയും കോഡുകളുടെയും രൂപകൽപ്പനയും നടപ്പാക്കലും എല്ലാം സാഹിത്യ അവലോകനത്തിൽ പെടുന്നു അതിനാൽ ഒരു ലെവൽ അതിന്റെ നഗര പ്രാദേശിക ആസൂത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നു DRR രണ്ടാമത്തെ ലെവൽ കെട്ടിട മാനദണ്ഡങ്ങളുടെയും കോഡുകളുടെയും നടപ്പാക്കൽ വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ വശം അവർ 5 കേസ് സ്റ്റഡീസ് എടുത്തിട്ടുണ്ട് ഓരോന്നിനും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ് അവയിൽ രണ്ടെണ്ണം തുർക്കിയിൽ നിന്നുള്ളവരാണ് ഒന്ന് ഇസ്താംബൂളുമായി ബന്ധപ്പെട്ടതാണ് 99 ന് ശേഷമുള്ള അങ്കാറ ഭൂകമ്പം മർമര ഭൂകമ്പം തുർക്കിയിലെ 99 ന് ശേഷമുള്ള ഭൂകമ്പങ്ങൾ തുർക്കിയിലെ ദുരന്തനിവാരണത്തിൽ എന്ത് തരത്തിലുള്ള സംഭവവികാസങ്ങൾ സംഭവിച്ചു രണ്ടാമത്തേത് തുർക്കിയിൽ 1999 മുതൽ ബിൽഡിംഗ് കോഡിൽ എന്ത് തരത്തിലുള്ള പരിഷ്കാരങ്ങളും നിർവ്വഹണങ്ങളും സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് അതിനാൽ ഇത് ബിൽഡിംഗ് കോഡ് വശത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമീബിയയിൽ അത് ദുരന്തസാധ്യതാ തയ്യാറെടുപ്പിന്റെ അനൌപചാരിക പരിഹാരത്തിന്റെ അവലോകനത്തെക്കുറിച്ചും അർജന്റീനയിൽ അവർ ദുരന്തസാധ്യതയും നഗരാസൂത്രണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നു ഇറാനിൽ അവർ ഭൂകമ്പത്തിനെതിരായ കെട്ടിട നിർമ്മാണ സുരക്ഷാ ചട്ടങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കാരണം ആ സമയത്ത് അടുത്തിടെയുണ്ടായ ഭൂകമ്പം ബാമിനെ ബാധിച്ചു അതിനാൽ ഭൂകമ്പത്തിന്റെ സുരക്ഷയെക്കുറിച്ച് പ്രത്യേകം സംസാരിച്ചു തുടർന്ന് ഈ കേസ് പഠനങ്ങളും സാഹിത്യ അവലോകനവുമായി ബന്ധപ്പെട്ടും അവയും അവസാനിപ്പിച്ചു 2010 സെപ്റ്റംബറിൽ ലണ്ടനിൽ നടന്ന ചെറിയ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ അവർ എല്ലാം ഉപസംഗ്രഹിച്ചു അങ്ങനെ അത് മുഴുവൻ റിപ്പോർട്ട് പ്രോസസും രൂപപ്പെടുത്തി നേതൃത്വത്തിനായി അവതരിപ്പിച്ച ഇതിനു 2 ഭാഗങ്ങളുണ്ട് ഒന്ന് ആസൂത്രണവും ലാൻഡ് മാനേജ്മെന്റും ആണ് രണ്ടാം ഭാഗം കെട്ടിടങ്ങൾക്കും ദുരന്ത പ്രതിരോധ നിർമ്മാണത്തിനും വേണ്ടിയുള്ള നിയന്ത്രണങ്ങളാണ് ഇവിടെ ഇത് വീണ്ടും 3 ഘടകങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് ആസൂത്രണവും ഭൂമിയുമായി ബന്ധപ്പെട്ട ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് രണ്ടാമത്തേത് നഗര ആസൂത്രണവും പദ്ധതികളുടെ നിർവഹണവുമാണ് മൂന്നാമത്തേത് ആസൂത്രണം ഭൂ പരിപാലനം നവീകരണം എന്നിവയിലൂടെ ദുരന്തസാധ്യതയും അനൌപചാരിക സെറ്റിൽമെന്റുകളും കുറയ്ക്കുന്നു അതിനാൽ അനൌപചാരിക സെറ്റിൽമെന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതേസമയം രണ്ടാം ഭാഗത്തിൽ കെട്ടിടങ്ങൾക്കും ദുരന്തപ്രതിരോധ നിർമ്മാണത്തിനുമുള്ള നിയന്ത്രണങ്ങളാണ് ആദ്യത്തേത് ഉചിതമായ കോഡുകളും മാനദണ്ഡങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിലും വികസിപ്പിക്കുന്നതിലും ബിൽഡിംഗ് സ്റ്റാൻഡേർഡിന്റെ പ്രയോഗത്തിനും നിർവ്വഹണത്തിനും ചുറ്റുമുള്ള നിയന്ത്രണങ്ങളും സമ്പ്രദായങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിനാൽ നടപ്പാക്കൽ പ്രക്രിയയിൽ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതിനാൽ അവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഉദാഹരണത്തിന് തുർക്കിയിൽ ഗ്യാസ് പൈപ്പ്ലൈനുകൾ എങ്ങനെ ഗ്യാസ് സ്റ്റേഷനുകൾ റസിഡൻഷ്യൽ ഏരിയകൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു റെസിഡൻഷ്യൽ ഏരിയകളിൽ അത് അപകടകരമായിരിക്കാം എന്നിങ്ങനെ റെഗുലേറ്ററി ചട്ടക്കൂടുകൾ ഈ ഗ്യാസ് സർവീസ് സ്റ്റേഷനുകളെക്കുറിച്ച് വീക്ഷണകോണിലേക്ക് പൂർണ്ണമായും നോക്കിയിട്ടില്ല എന്നാണ് ഇതിനർത്ഥം അതിനാൽ വിവിധ പ്ലാൻ ഉപയോഗങ്ങളുടെ ഉചിതമായ പ്രവർത്തനക്ഷമത നൽകുന്നതിൽ ഭൂവിനിയോഗ ആസൂത്രണവും ഡിആർആർ പരിഗണിക്കേണ്ടതിന്റെ ചില പാളിച്ചകൾ ഇതാണ് നിങ്ങൾക്കറിയാം അതിനാൽ വ്യാവസായിക വിഭാഗങ്ങൾ കൂടിയായതിനാൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് പാർപ്പിട ഭൂവിനിയോഗവുമായി എങ്ങനെ ഇടപഴകുന്നു എന്ന് സങ്കൽപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ജലമലിനീകരണത്തിൽ ബംഗ്ലാദേശിലെ ആർസെനിക് ജലമലിനീകരണം അത് എങ്ങനെയുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ആളുകൾ അതിനോടൊപ്പമാണ് ജീവിക്കുന്നത് അതിനാൽ ഈ പ്രത്യേക ഭൂവിനിയോഗ ആസൂത്രണത്തിൽ ഒരാൾ നോക്കേണ്ട വിവിധ വശങ്ങളുണ്ട് ഇത് ദേശീയ തലത്തിലുള്ള നിയമനിർമ്മാണ ചട്ടക്കൂട് മാത്രമല്ല ചെയ്യേണ്ടത് കാരണം ഇന്ത്യയിൽ നമ്മൾ യുആർഡിപിഎഫ്ഐ മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ചും മറ്റ് വിവിധ ദേശീയ തല സജ്ജീകരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു അവർ ഒന്നിലധികം അപകടസാധ്യതകൾ കണക്കിലെടുക്കണം ഒന്നിലധികം അപകടസാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ പ്രാദേശിക തലത്തിലെ നിർബന്ധിത ആസൂത്രണം ദുരന്ത സംഭവങ്ങളോടുള്ള പ്രതികരണമായി പ്രതിലോമകരമായ നിയമനിർമ്മാണത്തിനുപകരം തന്ത്രപരവും മുന്നോട്ടുള്ളതുമായ നിയമനിർമ്മാണങ്ങൾ ഇവാ നോക്കേണ്ടതുണ്ട് അതിനാൽ അങ്ങനെ ഒരു സംഭവം നടന്നാൽ നമ്മൾ പ്രതികരിക്കുക അല്ല വേണ്ടത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു തന്ത്രപരമായ വഴി നോക്കണം സംഭവം നടന്നില്ലെങ്കിലും എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ നിർദ്ദിഷ്ട മേഖലകളിലെ വികസന ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രാദേശിക പൊരുത്തപ്പെടുത്തൽ അനുവദിക്കാൻ കഴിയുന്നത്ര അയവുള്ള നിയമനിർമ്മാണം ദരിദ്രർക്ക് കൂടുതൽ താങ്ങാനാവുന്ന ഭൂമിയുടെ ആവശ്യകതകളിൽ ഇളവുകൾ നൽകുന്നതിനുള്ള ചെറിയ പ്ലോട്ടുകൾ ഡിസൈൻ സമീപനത്തിലൂടെ കൂടുതൽ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഭൂമി തിരിച്ചറിയുന്നതിലൂടെ മാത്രമല്ല ഇത് സുരക്ഷിതമായ ഭൂമിയാണെന്നും അതിന്റെ സുരക്ഷ മനസ്സിലാക്കാൻ ഒരു രൂപകൽപ്പനയ്ക്ക് പോലും കഴിയും യഥാർത്ഥത്തിൽ സുരക്ഷിതമായ ഭൂമിയിൽ കെട്ടിടങ്ങളെ സുരക്ഷിതമായി സ്ഥാപിക്കുന്നതിൽ മാത്രമല്ല അവയുടെ ദിശാസൂചനകൾക്കും മുഴുവൻ സമീപനവും സ്വീകരിച്ച വിധത്തിൽ ആളുകൾക്ക് സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയും സ്കാൻഡിനേവിയൻ ഉദാഹരണത്തിലെന്നപോലെ സിവിൽ സമൂഹത്തിനും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇടയിലുള്ള സജീവമായ കൌണ്ടർബാലൻസുകൾ ഞാൻ സ്വീഡനിൽ ജോലി ചെയ്തിരുന്നപ്പോൾ മഞ്ഞ് പരിപാലനത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചിരുന്നു അതിനാൽ കൌൺസിൽ എങ്ങനെയാണ് സ്നോ മാനേജ്മെന്റ് പ്രോഗ്രാം നടത്തിയതെന്ന് ഞങ്ങൾ പല ഏജൻസികളെയും അഭിമുഖം നടത്തി ഒരേ കെട്ടിടത്തിൽ രണ്ട് വകുപ്പുകൾ നിലവിലുണ്ട് കാരണം അവയ്ക്ക് മഞ്ഞ് പരിപാലനത്തിന്റെ 3 വിഭാഗങ്ങളുണ്ട് ഒരാൾ ഹൈവേകളിലേക്കും ഒരാൾ സംസ്ഥാന പാതകളിലേക്കും പ്രധാന ഹൈവേകളിലേക്കും നോക്കുന്നു രണ്ടാമത്തേത് ജില്ലാ റൂട്ടുകളിലേക്കും മൂന്നാമത്തെ ലെവൽ അയൽപക്ക തലത്തിലേക്കും നോക്കുന്നു അപ്പോൾ ഈ 3 പേരും ഒരേ കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അവ ഒരിക്കലും ഇടപഴകുന്നില്ല അതിനാൽ അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് എന്നാൽ അവർക്ക് ചില വിടവുകൾ ഉണ്ട് 6 മണിക്ക് ഹൈവേ വൃത്തിയാക്കും ഹൈവേക്കാർ വൃത്തിയാക്കും 9 മണിക്ക് മറ്റൊരാൾ വരും പക്ഷേ ഇത് സമീപവാസികൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതിന് തടസ്സമാകും അതിനിടയിലുള്ള ഇടത്തരം പ്രദേശങ്ങൾ ലോക്കൽ ക്ലിയറൻസ് ആളുകൾക്കും ഹൈവേ ക്ലിയറൻസ് ആളുകൾക്കും ഇടയിലുള്ള സാൻഡ്വിച്ച് ഏരിയകളെക്കുറിച്ച് കുറച്ച് ഏകോപനം ഉണ്ടാകേണ്ടത് അവിടെയാണ് അങ്ങനെ ഒരുതരം ഏകോപനം ആവശ്യമായിരുന്നു അതിനാൽ അവിടെയാണ് ഞാൻ പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കിടയിൽ ഒരുതരം സന്തുലിതാവസ്ഥയും ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് വികസന തീരുമാനങ്ങൾ ലാഭം മാത്രമല്ല എന്ന് അവർ ഉറപ്പാക്കണം കാരണം വികസന അധികാരികൾ പലരും ആ പ്രത്യേക അയൽപക്കത്തിന്റെ അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുരക്ഷ അന്വേഷിക്കുന്നു ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ നേട്ടങ്ങളുടെ സാമൂഹിക പാരിസ്ഥിതിക സാമ്പത്തിക ചെലവ് എന്താണെന്നും അവർ പരിഗണിക്കേണ്ടതുണ്ട് 140 ഏക്കർ വികസന നിർദ്ദേശവുമായി ആരെങ്കിലും വരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ വശങ്ങളും നോക്കേണ്ടതുണ്ട് അത് ജലസുരക്ഷാ പ്രശ്നങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും നിങ്ങൾക്ക് അറിയാവുന്ന മണ്ണിന്റെ നശീകരണ പ്രശ്നങ്ങളിൽ അത് എങ്ങനെ സ്വാധീനം ചെലുത്തും അതായത് എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നടപ്പാക്കൽ വെല്ലുവിളികളോടുകൂടി ഞാൻ സംഗ്രഹിക്കുന്നു ഇനി ഏതെങ്കിലും പദ്ധതി നിർവഹണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അത് പ്രാദേശിക വികസന അതോറിറ്റിക്ക് സമർപ്പിക്കും നിങ്ങൾക്ക് പ്രാദേശിക കൌൺസിലിന് സമർപ്പിക്കണമെങ്കിൽ ഒരു വലിയ ഏരിയ വികസനം നിർദ്ദേശിക്കുമ്പോൾ ഈ പ്രാദേശിക സർക്കാരുകൾക്ക് ആദ്യപടിയുണ്ട് അവിടെയാണ് വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം ആസൂത്രണം ചെയ്യുന്നതിലും കെട്ടിപ്പടുക്കുന്നതിലും അപകടസാധ്യത കുറയ്ക്കുന്നതിന്റെ മുൻ നിരയിൽ അവർ നിൽക്കുന്നത് വമ്പിച്ച ഭവന വികസന പദ്ധതിയുമായാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അത് ആദ്യം പോകുന്നത് ലോക്കൽ കൌൺസിലിലേക്കാണ് വികസ്വര രാജ്യങ്ങളിലെ പ്രശ്നം അവൻ ഒരു വലിയ വാസ്തുശില്പിയായിരിക്കാം നോർമൻ ഫോസ്റ്ററോ അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ദോഷിയെപ്പോലുള്ള ആർക്കിടെക്റ്റുകൾ അല്ലെങ്കിൽ വൻകിട ഭവന പദ്ധതികൾ രൂപകൽപന ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം എന്നാൽ ദിവസാവസാനം അത് കൌൺസിലിൽ സ്വീകരിക്കുന്നത് ആരാണോ അവരാണ് ആ പ്രൊജക്റ്റ് മൂല്യനിർണ്ണയo ചെയ്യുന്നത് ചെറിയ പട്ടണങ്ങളിലെ പല കേസുകളും അവനായിരിക്കാം ദുരന്തസാധ്യത കുറയ്ക്കൽ വശങ്ങൾ പാരിസ്ഥിതിക ആശങ്കകൾ എന്നിവയെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ കുറച്ച് യോഗ്യതയുള്ള വ്യക്തികളെ പോലും നിങ്ങൾ കണ്ടെത്തിയേക്കാം അതിനാൽ അവരുടെ ദൈനംദിന സമ്മർദ്ദകരമായ സാഹചര്യത്തെ അംഗീകരിക്കുന്നതിനുള്ള വ്യത്യസ്തമായ ഒരു പ്രക്രിയയിൽ അവർ പരിശീലിപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ പ്രദേശവാസികൾ അങ്ങനെയാണ് കാരണം അവർക്ക് ധാരാളം വികസന നിർദ്ദേശങ്ങളും ബ്യൂറോക്രാറ്റിക് പ്രക്രിയയും കനത്ത ഭാരമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്ലാനിംഗ് ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ അന്തരീക്ഷം പ്രവർത്തന അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല വേണ്ടത്ര സാങ്കേതിക ശേഷി ഇല്ലാതിരിക്കുകയും ചെയ്യും ഇത് ചെറിയ പട്ടണങ്ങളിൽ വളരെ ശരിയാണ് റിസ്ക് കുറയ്ക്കാനുള്ള പ്രാദേശിക സർക്കാരുകളുടെ പ്രതിബദ്ധത സാമ്പത്തിക വളർച്ച പോലുള്ള മത്സര താൽപ്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ഞാൻ പൂനെയിലെ മഹാബലേശ്വറിലായിരുന്നു ഒരു വശത്ത് ടൂറിസം സെഗ്മെന്റ് സാമ്പത്തിക വളർച്ച ഉയർത്തുന്നതിനുള്ള ഒരു പ്രോത്സാഹന വശമാണ് എന്നാൽ ഇത് പരിസ്ഥിതി സെൻസിറ്റീവ് സോണിന്റെ ഭാഗമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ പ്രാദേശിക സർക്കാരുകൾ നിങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള മുൻഗണന നൽകണം വികസനത്തിൽ ഓരോരുത്തരും വേണ്ടത്ര സെൻസിറ്റീവ് ആയിരിക്കണം പ്രാദേശിക ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള ശ്രദ്ധയിൽ രാഷ്ട്രീയക്കാർ വളരെ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നപോലെ കൂടുതൽ സമ്പന്നമായ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നു ഓരോ ജനറേഷനും സെൻസിറ്റീവ് സാമ്പത്തിക മോഡലുകൾ ഉപയോഗിച്ച് അവരുടെ പ്രദേശങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവർ ടൂറിസം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചിലത് വ്യവസായങ്ങൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാൻ എന്നാൽ അത് എങ്ങനെ സ്വാധീനം ചെലുത്തും അത് എങ്ങനെ ദുരന്തസാധ്യത കുറയ്ക്കും ഇത്തരം കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് അപൂർവ്വമായി ദുരന്ത സംഭവങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമാണ് പ്രാദേശിക തലത്തിലുള്ള ആസൂത്രണത്തിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു മഹാബലേശ്വർ കേസ്Mahabaleshwar case പരിസ്ഥിതി ലോല മേഖലയുടെ ഭാഗമായതിനാൽ സമീപനം ഒരു നഗര തലത്തിലോ ടൌൺ തലത്തിലോ അർബൻ തലത്തിലോ മാത്രം പോകരുത് പ്രാദേശിക തലത്തിലുള്ള ധാരണ വരേണ്ട വലിയ ആവാസവ്യവസ്ഥയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കണം അതുപോലെ ഉത്തരകാശി മുതൽ ഗംഗോത്രി വരെ പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആസൂത്രണവും ആ വീക്ഷണം പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ എവിടെയാണ് ആസൂത്രണം ചെയ്യുന്നത് പ്രാദേശിക തലം തകരാർ എവിടെ പോകുന്നു നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകൾ എങ്ങനെ ആസൂത്രണം ചെയ്യാം അവിടെയാണ് പ്രാദേശിക ആസൂത്രണം അപകടസാധ്യതകളെക്കുറിച്ചുള്ള ഏകീകൃത വിവരങ്ങൾ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ഒരിടത്ത് അപകടസാധ്യത കുറയുകയും മറ്റൊരു പ്രദേശത്തേക്ക് അപകടസാധ്യത മാറ്റുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും നിർമ്മിക്കുന്ന നിമിഷം അത് പിന്തുടരുന്ന പരിസരങ്ങളിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ബാധിച്ചേക്കാം അപ്പോൾ അവിടെയാണ് പ്രാദേശിക ആസൂത്രണ സമീപനം നടപ്പിലാക്കേണ്ടത് കൂടാതെ ഒന്നിലധികം ഓഹരി ഉടമകളെ പ്രാപ്തരാക്കുന്ന നിയമനിർമ്മാണം ഡിആർആർ രാഷ്ട്രങ്ങളും നഗരങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഇൻപുട്ടുകൾ എന്നിവ ഒരു യഥാർത്ഥ മൾട്ടി സ്റ്റേക്ക്ഹോൾഡർ വീക്ഷണം എളുപ്പത്തിൽ കൈവരിക്കില്ല അതിനാൽ ഈ വെല്ലുവിളികൾ ഒന്നിലധികം വ്യത്യസ്ത പങ്കാളികളുമായി ഇടപഴകുന്നതിന് പകരം എങ്ങനെയെങ്കിലും ദുരന്തനിവാരണത്തിനും ആസൂത്രണത്തിനുമുള്ള തികച്ചും സാങ്കേതികമായ സമീപനങ്ങളെ മറികടക്കാൻ ശേഷി ഉളവാക്കുന്നതായിരിക്കണം അതിനാൽ ആസൂത്രണ ഉദ്യോഗസ്ഥരെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പല കേസുകളിലും വ്യത്യസ്ത പങ്കാളികളുടെ കൂടിയാലോചന പ്രക്രിയയെക്കാൾ സാങ്കേതിക സമീപനങ്ങളിൽ അവർ ആധിപത്യം പുലർത്തുന്നു ചിലപ്പോൾ ഈ മീറ്റിംഗുകൾ പല കൌൺസിലുകളിലും നടക്കുന്നു എന്നാൽ ഇത് എത്രത്തോളം പരിഗണിക്കപ്പെട്ടു അഥവാ എത്ര ആഴത്തിലുള്ളതാണ് ബോട്ടം അപ്പ് അപ്പ്രോച്ച് നോക്കിയാൽ ഇവിടെയാണ് സാങ്കേതിക സമീപനങ്ങൾ സാമൂഹിക സമീപനങ്ങളിലും വ്യത്യസ്ത പങ്കാളികളുടെ കാഴ്ചപ്പാടിലും ആധിപത്യം സ്ഥാപിക്കുന്നത് നഗരാസൂത്രണത്തിൽ ദുരന്തനിവാരണ വകുപ്പുകളുടെ പരമ്പരാഗതമായ വേർതിരിവ് മിക്ക അധികാരപരിധികളിലും ഇപ്പോഴും നിലവിലുണ്ട് അതിനാൽ നഗര പ്രതിരോധശേഷിയെക്കുറിച്ചുള്ള ഒരു വലിയ വീക്ഷണത്തിൽ ദുരന്തപ്രതികരണത്തിനുള്ള ഒരു ആകസ്മിക ആസൂത്രണമായാണ് ദുരന്തനിവാരണത്തെ കൂടുതലും കാണുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ദുരന്ത ആസൂത്രണം ആസൂത്രണ പ്രക്രിയയിൽ നന്നായി സംയോജിപ്പിച്ചിട്ടില്ലാത്ത പല കേസുകളിലും ഞങ്ങൾ ഇപ്പോഴും 1980 കളിലാണ് കാരണം ഒരു ദുരന്തമോ അപകടമോ സംഭവിക്കുമ്പോൾ എത്ര നന്നായി നമുക്ക് രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യാമെന്നും എന്നാൽ ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നും ഒരു ആസൂത്രണ പ്രക്രിയയ്ക്ക് തന്നെ ആ ചിന്താ പ്രക്രിയയിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് അവർ എപ്പോഴും കാണുന്നു അതിനാൽ ഈ വകുപ്പുകളുടെ രണ്ട് വ്യത്യസ്ത വേർതിരിവാണ് പല അധികാരപരിധികളിലും ഇപ്പോഴും നിലനിൽക്കുന്നത് ആസൂത്രണം ഭൂപരിപാലനം നവീകരണം എന്നിവയിലൂടെ അനൌപചാരിക വാസസ്ഥലങ്ങളിലെ ദുരന്തസാധ്യത കുറയ്ക്കുക എന്നതാണ് അതിനാൽ അനൌപചാരിക സെറ്റിൽമെന്റുകളിൽ പല ആഘാതങ്ങളും കാണപ്പെടുന്നത് നിങ്ങൾ കണ്ടതുപോലെ അവർ ലക്ഷ്യമിടുന്നത് അരികിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെയാണ് വിവിധ സാമ്പത്തിക കാരണങ്ങളാൽ അവർ അരികിൽ ജീവിക്കുന്നവരായാലും അല്ലെങ്കിൽ ഈ അവസ്ഥകളിൽ ജീവിക്കാൻ അവരെ വെല്ലുവിളിക്കുന്ന ചില സമ്മർദ്ദകരമായ സാഹചര്യങ്ങളായാലും നാം കാണുന്നത് ഇപ്പോൾ ഈ പ്രത്യേക റിപ്പോർട്ട് നമീബിയയിൽ നിന്ന് തുടങ്ങി തുർക്കി അർജന്റീന എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ഉദാഹരണങ്ങൾ സ്പർശിച്ചു ഒപ്പം ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന വശങ്ങളെ കുറിച്ചും അവർ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാലാവധിയുടെ സുരക്ഷ കുടിയൊഴിപ്പിക്കൽ അപകടസാധ്യത കുറയ്ക്കൽ എന്നിവ അനൌപചാരിക സെറ്റിൽമെന്റുകൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് അർജന്റീനയുടെ വശം അൽമാൻസിയുടെ സൃഷ്ടിയുടെ കാര്യത്തിലാണിത് അതിനാൽ അടിസ്ഥാന സൌകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുകയും ഭവനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുന്നതോടെ ഒരു ടേനുവർ ചേരി നോൺ ടേനുവർ ചേരി ക്രമേണ ഒരു ടേനുവർ ചേരിയായി മാറുന്നു അതിനാൽ സമാനമായി വിഭജിക്കപ്പെടാത്ത ഒരു ഭൂമി അതിനാൽ മുമ്പ് നമീബിയയിലെ സമാനമായ കേസുകളിലും ഇത് സത്യമായിരുന്നു അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചിലത് ലഭിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ പോയി ഭൂമിയിലേക്ക് പോയി ഈ സ്ഥലങ്ങൾ ഒഴിഞ്ഞ് സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ട് എന്നാൽ മറ്റ് ചില പ്രധാന വശങ്ങളുണ്ട് ഉപജീവനത്തിന്റെ കാര്യമോ അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവർ വിവിധ കാരണങ്ങളാൽ താമസിക്കുന്നു അവർ സാമ്പത്തിക കാരണങ്ങളാൽ അവിടെ താമസിക്കുന്നു എന്നതാണ് ശരി നേരത്തെ ഒരു അനൌപചാരിക ഒത്തുതീർപ്പ് ഉണ്ടായപ്പോൾ അതിൽ ഒരു നിയന്ത്രണ ചട്ടക്കൂടും നടപ്പിലാക്കിയിട്ടില്ല അതിനാൽ ആവശ്യം വരുമ്പോൾ ആളുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു എന്നാൽ പിന്നീട് ഡിആർആർ പ്രാക്ടീസ് ഫണ്ടിംഗ് മെക്കാനിസവുമായോ ഏതെങ്കിലും നിയമപരമായ പിന്തുണാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ വിവിധ സംവിധാനങ്ങളോടെ അപ് ഗ്രേഡേഷൻ വശത്തിനായി അവരെ നിർബന്ധിതമാക്കിയപ്പോൾ ഇത് വളരെ ഓർഗാനിക് രീതിയിലാണ് വളർന്നത് അതിനാൽ അവർ വിവിധ ആവശ്യങ്ങൾക്ക് വിധേയരാകേണ്ടിവരുന്നു ഉദാഹരണത്തിന് 300 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള പ്ലോട്ടുകൾ സമുദ്രനിരപ്പിൽ നിന്ന് 375 മീറ്ററിലധികം ഉയരമുള്ള ഭൂമി വൈദ്യുതി ജല സിവിൽ സർവീസുകൾ ഇൻഫ്രാസ്ട്രക്ചർ സേവന വ്യവസ്ഥകൾ ജലപാതകളുടെ അതിരുകളിൽ പാർപ്പിടത്തിനുള്ള നിയന്ത്രണങ്ങൾ അതുപോലെ സോണൽ ചട്ടങ്ങളും ഒരു പൊതു സ്ഥലത്തിനുള്ള ഭൂമിയുടെ ശതമാനവും ഇവിടെ പ്രധാന പങ്കു വഹിച്ചു നിങ്ങൾ പൊതുസ്ഥലത്തിന് 10 അല്ലെങ്കിൽ 15 ഭൂമി നൽകിയാലും അത് ഔപചാരികമായി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപവിഭാഗങ്ങൾ ശരിയാക്കാൻ കഴിയൂ അതിനാൽ ഒരാൾ അത്തരത്തിലുള്ളത് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു കാലയളവ് പ്ലാൻ ആക്കുന്നതിന് വ്യവസ്ഥകൾ ഉണ്ട് കൂടാതെ പ്രോമേബ പോലുള്ള വിവിധ സ്കീമുകളും പ്രോഗ്രാമുകളും ഉണ്ട് കൂടാതെ അവർ ഇത് വിവിധ അനൌപചാരിക സെറ്റിൽമെന്റുകളിൽ നടപ്പാക്കൽ തലമായി നടത്തിയിട്ടുണ്ട് റൊസാരിയോ ഹാബിറ്റാറ്റ് പ്രോഗ്രാമിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വില്ല കോറിയന്റസിന്റെ പ്രാരംഭ ലേഔട്ട് ഇതാണ് ആ പ്രത്യേക പ്രദേശത്ത് ഏകദേശം പൂർണ്ണമായും അനൌപചാരിക വാസസ്ഥലങ്ങൾ ആയ 13 ഭൂമിയുണ്ട് നിങ്ങൾക്ക് ഇത് ഔപചാരികമാക്കണമെങ്കിൽ അത് സാമൂഹികമായി സെൻസിറ്റീവ് പ്രതികരണങ്ങളാക്കി മാറ്റുകയും നിങ്ങൾക്കറിയാവുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുകയും വേണം അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം ആദ്യം അവർ ചെയ്തത് അടിസ്ഥാന സൌകര്യങ്ങളും സേവനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനായി മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കാരണം നിങ്ങൾ നോക്കുകയോ തിരിച്ചറിയുകയോ ചെയ്തതിനാൽ ഈ വീടുകൾ മാറ്റി സ്ഥാപിക്കപ്പെട്ടു അവയ്ക്ക് റോഡുകൾക്കും സേവനങ്ങൾക്കും ചില വഴികൾ സ്വതന്ത്രമാക്കി അവിടെയാണ് അവർ പുതിയ പാതകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഭൂമിയുടെ ഉപവിഭാഗം ക്രമീകരിച്ച് റോഡ് നിർമ്മിച്ചു അതിനാൽ ആ വിധത്തിൽ അസ്തിത്വത്തിനുള്ളിൽ ആവാസവ്യവസ്ഥയുടെ ഭൂരിഭാഗവും ശല്യപ്പെടുത്താതെ ആസൂത്രിതമായ പ്രക്രിയയ്ക്കും ആവശ്യകതകൾക്കും വേണ്ടി റോഡുകളും അടിസ്ഥാന സേവനങ്ങളും സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ കുറച്ച് വീടുകളെ തിരിച്ചറിഞ്ഞു അപകടസാധ്യത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നിയന്ത്രണങ്ങൾ നയങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളിൽ പലതും പാവപ്പെട്ടവരിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ കാലാവധിയില്ലാതെ ജീവിക്കുന്നവരിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ അനൌപചാരികമായ സെറ്റിൽമെന്റുകളുടെ കാര്യം വരുമ്പോൾ രണ്ട് കാലാവധിയും കാലാവധിയില്ലാതെ ചെയ്യപ്പെടുന്നു അതിനാൽ പല വികസന നിയന്ത്രണ പ്രക്രിയകളിലും അവ കാലാവധി ശരിയായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ലഅതുകൊണ്ടാണ് അവർ അവിടെ സുരക്ഷിതമല്ലാത്തതുമായ അവസ്ഥകളിൽ താമസിക്കുന്നത് അവസാനിപ്പിക്കുന്നതും അവർ ഒരു ടാർഗെറ്റ് ഗ്രൂപ്പായി മാറുന്നതും നമീബിയയിലെ കേസുകളിൽ ചില അപ് ഗ്രേഡേഷൻ പ്രോഗ്രാം വികസിപ്പിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ഥലം മാറ്റൽ പരിപാടി നടത്തുമ്പോഴോ പ്രാദേശിക അധികാരപരിധിയിൽ നിങ്ങൾക്കറിയാവുന്നതിന്റെ ഭാഗമല്ലാത്ത ഭൂമി അവർ തിരിച്ചറിഞ്ഞു എന്നാൽ അത് വന്ന സമയം നഗര തലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ആളുകൾക്ക് ഭൂമി അനുവദിച്ചപ്പോൾ നഗര നിർവ്വഹണം ഇല്ലാത്തതിനാൽ അത് അവരുടെ അല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനാൽ ആളുകൾ തങ്ങൾക്കുള്ള എല്ലാ സൌകര്യങ്ങളും ഉപയോഗിച്ച് ഇതിനകം തന്നെ കെട്ടിപ്പടുക്കാൻ തുടങ്ങി അതിനാൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയപ്പോൾ നഗര നിയന്ത്രണ ചട്ടക്കൂടുകൾ സംയോജിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അത് ഒരു വെല്ലുവിളിയായി മാറുന്നു കാരണം കമ്മ്യൂണിറ്റികൾ അവരുടെ സ്വന്തം രീതികളിൽ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ ഇത് ഉൾപ്പെടുത്തുമ്പോഴും ഉൾപ്പെടുത്താതിരിക്കുമ്പോഴും കാലഹരണപ്പെടുന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇവ കൂടാതെ പ്രാദേശിക ഗവൺമെന്റുമായി സഹകരിച്ച് ശക്തമായ കമ്മ്യൂണിറ്റി അധിഷ്ഠിത ഓർഗനൈസേഷനുകളും നിലവിലുണ്ട് അവ ലാൻഡ് മാനേജ്മെന്റിനും നവീകരണത്തിനുമുള്ള മികച്ച നയങ്ങളെ സ്വാധീനിക്കാൻ കഴിയും ഇവിടെയാണ് മുനിസിപ്പൽ ഗവൺമെന്റുകൾക്ക് ഭൂമിയുടെയും ആസൂത്രണത്തിന്റെയും കാര്യത്തിൽ DRR ന് അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ കഴിയുക റിപ്പോർട്ടിന്റെ ഭാഗം 2 വരുമ്പോൾ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന്റെയും ഉചിതമായ കോഡുകളും മാനദണ്ഡങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ചും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു കൂടാതെ പല സന്ദർഭങ്ങളിലും പ്രാദേശിക സാഹചര്യങ്ങളുമായി പ്രതിഫലിക്കാത്ത കെട്ടിട കോഡുകളിൽ പലതും വളരെ ശരിയാണ് കോഡുകൾ എങ്ങനെ പുനഃപരിശോധിക്കാമെന്ന് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് പ്രായോഗിക പ്രവർത്തന ഗ്രൂപ്പ് ചില തത്വങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഞങ്ങൾക്ക് NBC 2016 ഉണ്ട് നേരത്തെ അത് 2005 മുതലായിരുന്നു അതിനാൽ കാര്യങ്ങൾ കണക്കിലെടുക്കുകയും കമ്മിറ്റികൾ അത് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് പുനഃപരിശോധിക്കുന്നത് തുടരട്ടെ പുനരവലോകനം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾക്ക് പ്രസക്തവും പ്രാദേശിക സംസ്കാരങ്ങളിലും ജീവിത ശീലങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതായിരിക്കണമെന്നും ചില വശങ്ങൾ പറയുന്നു അതേസമയം ചെലവ് കുറയ്ക്കൽ മാറ്റങ്ങൾ ചെലവ് കുറയ്ക്കുന്നതിന് കാരണമാകണം അങ്ങനെ എല്ലാവർക്കും മതിയായതും താങ്ങാനാവുന്നതുമായ പാർപ്പിടം നേടാനാകും ഫോക്കസ് ദരിദ്രമായ അനൌപചാരിക മേഖലകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തൽ ഭവന വിതരണ പ്രക്രിയയിലെ എല്ലാ മേഖലകളുടെയും പങ്കാളിത്തം വ്യാഖ്യാനങ്ങൾ അനുവദിക്കുന്നതിനുള്ള വഴക്കം വൈവിധ്യമാർന്ന മെറ്റീരിയലുകൾ സാങ്കേതിക പരിഹാരങ്ങൾ എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക ഭവന നിർമാണ മാനദണ്ഡങ്ങളുണ്ട് അത് തദ്ദേശീയമായ രീതികൾ അനുവദിക്കുന്ന പ്രാദേശികമായി ലഭ്യമായ ഒരു കല്ല് നിർമ്മാണം അനുവദിക്കുന്നു ആക്സസ് നിയമനിർമ്മാണം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതുമായിരിക്കണം അതിനാൽ കോഡ് വസിക്കുന്ന ആശയങ്ങളും ചുറ്റുപാടുകളും വർദ്ധിക്കും നടപടിക്രമങ്ങൾ പ്ലാൻ അംഗീകാരം വേഗമേറിയതും അഴിമതിരഹിതവും ബിൽഡർക്ക് ചെലവുകുറഞ്ഞതുമായിരിക്കണം വികസ്വര രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അംഗീകാര ഘട്ടം ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം അതിനാൽ ഈ ഏജൻസികളെല്ലാം അഗ്നി സുരക്ഷയും അവകാശവും അംഗീകരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്നപോലെ ഒരു ഏകജാലക പരിശോധന നോക്കണം മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാത്തിനും അംഗീകാരം നൽകണം വ്യക്തിക്ക് വിവിധ ഏജൻസികളിൽ ചുറ്റിക്കറങ്ങണം അവിടെയാണ് പല വികസ്വര രാജ്യങ്ങളും അഴിമതി നടത്തുന്നത് ആ സമയം പല സമയത്തും അത് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നു ഉദാഹരണത്തിന് കോഡുകളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടുന്നില്ല മഹമ്മദ്പൂരിലെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് നാഷണൽ ബിൽഡിംഗ് കോഡ് നിങ്ങളുടെ കൈവശം ഉള്ളത് പോലെ ബംഗ്ലാദേശ് നാഷണൽ ബിൽഡിംഗ് കോഡ് ഒരു ഹെക്ടറിന് 75 യൂണിറ്റുകളെ സൂചിപ്പിക്കുന്നു ഒരു വാസസ്ഥലത്തിന് ശരാശരി 5 ആണ് ഏറ്റവും കുറഞ്ഞ പ്ലോട്ടിന്റെ വലുപ്പം 30 ചതുരശ്ര മീറ്റർ മുതൽ 25 ചതുരശ്ര മീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു ഇടതൂർന്ന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ നടപ്പാതകൾക്ക് 3 മീറ്റർ വീതി വേണം എന്നാൽ 6 മുതൽ 8 വരെ വലുപ്പമുള്ള കുടുംബങ്ങൾ 9 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള വീടുകളിൽ താമസിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വെള്ളത്തിന് മുകളിലൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുപോലും ബലപ്പെടുത്തൽ വന്നിട്ടില്ലാത്ത ഒരു സ്ഥലവും ഇല്ല നടപ്പാതകൾ 1 5 മീറ്ററാണ് പുറത്ത് സ്ഥലമില്ല വികസ്വര രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവയാണ് അത് ഗ്ലോബൽ അസസ്മെന്റ് റിപ്പോർട്ടുകളെക്കുറിച്ചും സുനാമിക്ക് ശേഷമുള്ള വിലയിരുത്തലിനെക്കുറിച്ചും സംക്ഷിപ്തമാണ് രണ്ട് സെറ്റ് മൂല്യനിർണ്ണയ റിപ്പോർട്ടുകളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ആവശ്യങ്ങൾ വിലയിരുത്തൽ 2005 ൽ എഡിബിയും ഐക്യരാഷ്ട്രസഭയും ലോകബാങ്കും ഒരു വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഒരു പ്രാഥമിക നാശനഷ്ടവും ആവശ്യങ്ങളും വിലയിരുത്തി തുടർന്ന് 2 വർഷത്തിനു ശേഷം സുനാമിയുടെ തുടർനടപടികൾ പുനർനിർമ്മാണം എങ്ങനെയാണ് സ്വീകരിച്ചത് വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പുരോഗതി എന്താണ് അങ്ങനെ 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ വിലയിരുത്തൽ നടത്തി ഇപ്പോൾ സുനാമിക്ക് ശേഷമുള്ള വഴി എന്ത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ആന്ധ്രാപ്രദേശിലെ പ്രാഥമിക സംഗ്രഹം സംസ്ഥാനങ്ങൾ തിരിച്ച് മേഖലാടിസ്ഥാനത്തിൽ ഭവനനിർമ്മാണ മേഖല പ്രകാരം ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പാർപ്പിട മേഖല ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി കന്നുകാലികൾ മത്സ്യബന്ധനം ഉപജീവനമാർഗം ഗ്രാമീണ മുനിസിപ്പൽ അടിസ്ഥാന സൌകര്യങ്ങൾ തീരസംരക്ഷണം ഇവിടെയാണ് നാശനഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതോപാധികളെ ബാധിക്കുന്നതും കൂടാതെ എന്താണ് ആവശ്യകതകൾ വിലയിരുത്തുന്നത് ഏത് തരത്തിലുള്ള ബജറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ഹ്രസ്വവും ഇടത്തരവുമായ പ്രക്രിയകൾ നോക്കേണ്ടതുണ്ട് ഉടൻ തന്നെ ദുരിതാശ്വാസ ഘട്ടത്തിൽ പുനരധിവാസത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാൽ അടുത്ത 1 2 വർഷത്തേക്ക് ഒരു ഇടത്തരം കാലയളവിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബജറ്റ് ആവശ്യമായി വന്നേക്കാം അങ്ങനെയാണ് ഓരോ മേഖലയ്ക്കും എത്ര തുക വേണ്ടിവരുന്നു ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നു അതുപോലെ സുനാമിയുമായി ബന്ധപ്പെട്ട ചെലവുകളുടെയും സാമ്പത്തികത്തിന്റെയും ആഘാതത്തിൽ ഇത് 2000 മുതൽ 2005 വരെ പോകുന്നു അതായത് 2006 മുതൽ 2008 വരെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് ഓരോ സംസ്ഥാനത്തിനും ഒരു സ്റ്റാറ്റസ് ക്വ സാഹചര്യമുണ്ടെന്നും അതുപോലെ തന്നെ പുതിയ സാഹചര്യമുണ്ടെന്നും അങ്ങനെയാണ് സാമ്പത്തിക വിദഗ്ധൻ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാരിന് ബജറ്റ് എസ്റ്റിമേറ്റ് അവതരിപ്പിച്ച് അവർ അത് എങ്ങനെ വകയിരുത്തുന്നു ബാഹ്യ ഫണ്ടിംഗും എങ്ങനെ സഹകരിക്കുന്നു അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ എന്ത് നേടി എന്ന് രണ്ടാമത്തെ റിപ്പോർട്ട് കാണിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പാർപ്പിടം വെള്ളം ശുചിത്വം എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ അത് നോക്കുന്നു അവയിൽ പലതും അവർ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ചു സംഖ്യകൾ എന്തൊക്കെയാണ് കേടുപാടുകൾ സംഭവിച്ചു ശതമാനം പുനർനിർമ്മിച്ചു അവ പൂർത്തീകരിച്ചു ബാലൻസ് എന്താണ് എന്തുകൊണ്ടാണ് അവ വൈകുന്നത് അതിനാൽ അവലോകനം എപ്പോഴും അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മന്ത്രിമാർ നോക്കുന്നത് എത്ര വീടുകൾ ആസൂത്രണം ചെയ്തു എത്രയെണ്ണം നടപ്പാക്കി എത്രയെണ്ണം നിരത്തി എത്രയെണ്ണം കെട്ടിക്കിടക്കുന്നു അപ്പോൾ ഇതാണ് അടിസ്ഥാന സൌകര്യങ്ങൾ റോഡുകൾ എന്തൊക്കെയാണ് ഏതുതരം ഹൈവേകൾ ഏതുതരം പഞ്ചായത്ത് ഓഫീസുകൾ ഏതുതരം കമ്മ്യൂണിറ്റി സൌകര്യങ്ങൾ അങ്ങനെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും വീണ്ടും പാലങ്ങൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ അവയിൽ എത്രയെണ്ണം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവയിൽ എത്ര എണ്ണം പൂർത്തിയായി ബജറ്റ് ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നതാണ് ആരോഗ്യത്തിൽ നിന്ന് സമാനമായി ആരോഗ്യ വിഭാഗം എച്ച്ഐവി എയ്ഡ്സ് മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ മാനസിക സാമൂഹിക പരിചരണവും എങ്ങനെ നൽകാം കാരണം ദുരന്തത്തിൽ അമ്മമാരെയും അച്ഛനെയും നഷ്ടപ്പെട്ട കുട്ടികളിൽ പലരും അവരെ എങ്ങനെ പരിപാലിക്കും എങ്ങനെ സ്ത്രീയെ പരിപാലിക്കാം ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്ക് ഒരു ബദൽ ഉപജീവന സംവിധാനവും ചില പ്രോത്സാഹനങ്ങളും എങ്ങനെ നൽകാം നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്ക് ആരോഗ്യവും പോഷകാഹാരവും എങ്ങനെ നൽകാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കുട്ടികളുടെ സംരക്ഷണം ബാലവേലക്കാരെയും അനാഥരായ കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കാം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം നൽകിക്കൊണ്ട് അവരുടെ മാനസികാവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്താം പിന്നെയും ഉപജീവന വശം സുനാമി കേസിൽ മത്സ്യത്തൊഴിലാളികളിൽ പലർക്കും അവരുടെ ബോട്ടുകൾ നഷ്ടപ്പെട്ടതിനാൽ ഫൈബർ ബോട്ടുകൾ നൽകുകയും നിങ്ങൾക്കറിയാവുന്ന കുറച്ച് സാമ്പത്തിക ചെലവുകൾ നൽകുകയും കുറച്ച് വലകളും മത്സ്യ ഉപകരണങ്ങളും വാങ്ങാനുള്ള പിന്തുണയും നൽകുകയും ചെയ്തു കൂടാതെ ഏതുതരം പാരിസ്ഥിതിക ആഘാതങ്ങൾ അതിൽനിന്നു എങ്ങനെ പുരോഗമിച്ചു ഏതുതരം തോട്ടങ്ങൾ പരിപാലിക്കപ്പെട്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കും അതുപോലെ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തസാധ്യതാ മാനേജ്മെന്റുമായി സമൂഹങ്ങൾ എങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്നു അവർ വിവരങ്ങൾ ആശയവിനിമയ സാങ്കേതികവിദ്യ ഏകോപനം എന്നിവ എങ്ങനെ അഭിമുഖീകരിക്കണം തമിഴ്നാട്ടിൽ അതിനുമുമ്പ് കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ ചെയ്തത് കേന്ദ്രതലം മുതൽ സംസ്ഥാനതലം വരെ ആശയവിനിമയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന കോർ വില്ലേജുകൾ കണ്ടെത്തി അത് വില്ലേജ് നോഡുകൾ വരെ പോകുന്നു അവർ ഈ വശം അവിടെ പ്രചരിപ്പിക്കുന്നു കമ്പ്യൂട്ടറുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം ഈ വിവരങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും മനസ്സിലാക്കാമെന്നും ഈ വിവരങ്ങൾ എങ്ങനെ അയയ്ക്കാമെന്നും ഗ്രാമവാസികളെ പരിശീലിപ്പിക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം വ്യത്യസ്ത എൻജിഒകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന്റെ കാര്യത്തിൽ അവ എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മന്ത്രാലയങ്ങൾ സംഖ്യകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരിൽ എത്ര പേർ ജോലി ചെയ്യുന്നവരാണ് എത്രപേർ നിങ്ങൾക്കറിയാം സാംസ്കാരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവന ആവശ്യങ്ങൾ ഒരു വ്യക്തി ഈ സ്ഥലങ്ങളിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തുകയും പരിഷ്ക്കരിക്കുകയും ചെയ്തു എന്നിങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് മറ്റ് പ്രഭാഷണങ്ങളിൽ ഈ ഷെൽട്ടറുകൾ അവരുടെ വ്യക്തിഗതവും കൂട്ടായതുമായ ആവശ്യങ്ങൾ കാരണം എങ്ങനെ പരിഷ്കരിച്ചുവെന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ഗുണപരമായ വിലയിരുത്തൽ അവിടെയുണ്ടെങ്കിൽ മന്ത്രിതല സജ്ജീകരണത്തിലോ ബ്യൂറോക്രാറ്റിക് സജ്ജീകരണത്തിലോ ഇവ കുറവാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ കോണിലേക്ക് നോക്കേണ്ടതുണ്ട് ഈ മൂല്യനിർണ്ണയ റിപ്പോർട്ടുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി